സുപ്രഭാതം 3D മെഷർമെന്റസ് സംബന്ധിച്ച പ്രഭാഷണത്തിലേക്ക് തിരികെ സ്വാഗതം ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ മെഷീനിംഗ് സയൻസ് ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് എന്താണ് കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ എന്ന് നമ്മൾ കാണും ഇതാണ് നമ്മുടെ മെഷീനിംഗ് സയൻസ് ലാബിലെ കോഡിനേറ്റ് മെഷറിംഗ് മെഷീൻ സ്പെക്ട്ര കോഡിനേറ്റ് മെഷറിംഗ് മെഷീൻ ഇത് വെർട്ടിക്കൽ ബാർ ആണ് ഇതൊരു ബ്രിഡ്ജ് ടൈപ്പ് കോ ഓർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ ആണ് ഇതിന് 18 ന്യൂമാറ്റിക് ബെയറിംഗുകളുണ്ട് അതിനാൽ 1 ബെയറിംഗ് ഈ വശത്താണ് ഉള്ളത് ശരി 1 ഈ നിരയിൽ 11 എണ്ണം ഈ നിരയിൽ നമ്മൾ ബെല്ലോ നീക്കംചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ബെയറിംഗ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും അതിനാൽ ഈ വശത്ത് 11 ബെയറിംഗുകൾ ഉണ്ട് ഒരെണ്ണം ഈ വശത്തും 6 എണ്ണം ഈ വശത്തും 11 1 6 എന്നത് 18 ആണ് അതിനാൽ ഇത് ഒരു ന്യൂമാറ്റിക് ബെയറിംഗ് ആണ് അത് കോളവും മറ്റ് പല മൂവ്മെന്റുകളേയും മൂവ് ചെയ്യാൻ സഹായിക്കുന്നു ശരി പൊടിയിൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പൊടിയിൽ നിന്ന് അതിനെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് വേണ്ടി ബെല്ലോ നമ്മളെ സഹായിക്കുന്നു അതിനാൽ ഇതിന് ഇവിടെ സ്വതന്ത്രമായി മൂവ് ചെയ്യാൻ കഴിയും എയർ ബ്ലോ കാരണം ഇതിന് കംപ്രസ്സുചെയ്യാനും അതുപോലെ സ്പ്രിംഗ് മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാനും കഴിയും രണ്ട് ഉപരിതലങ്ങൾക്കിടയിൽ വായു എയർ ബ്ലോ ഉള്ളതുപോലെ ഇതിന് കംപ്രസ്സുചെയ്യാനും ഒപ്പം സ്പ്രിംഗ് മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാനും കഴിയും അതിനാൽ അതിന് ഒരു വശത്ത് നിന്നും മറ്റൊരു വശത്തേക്ക് നീങ്ങാൻ കഴിയും അതിനാൽ ഈ വശത്ത് 6 ബെയറിംഗുകൾ ഉണ്ട് ശരി ഈ സൈഡ് ടു സൈഡ് ചലനം സാധ്യമാണ് ഒപ്പം പൂർണ്ണമായും വരണ്ട വായു കാരണം മൈക്രോഫിലിം ഫ്ലോ ചെയ്യുന്നു കംപ്രസ്സർ സ്വിച്ച് ഓൺ ചെയ്യാനും ഓഫാക്കാനും ഉപയോഗിക്കുന്ന കൺട്രോളറാണ് ഇത് ശരി അതിനാൽ ഇതാണ് കൺട്രോളർ നോബ് നമുക്ക് റെനിഷോ സെർവോ പവർ ആംപ്ലിഫയർ ഉണ്ട് റെനിഷോ എന്നത് C M നിർമ്മിക്കുന്ന കമ്പനി ആണ് കംപ്രസ്സറിൽ നിന്ന് കംപ്രസ് ചെയ്ത വായു വരുന്ന ട്യൂബ് പൈപ്പാണിത് അതിനാൽ ഇതാണ് കെയ്സർ കംപ്രസർ ഇത് റഫ്രിജറേഷൻ ടൈപ്പ് എയർ കംപ്രസ്സറാണ് ഇത് 100 ശതമാനം ഈർപ്പ രഹിതമാണ് അത് മെഷീനെ ദോഷകരമായി ബാധിക്കുകയില്ല അതിനാൽ നമുക്ക് ഉപയോഗിക്കേണ്ട കംപ്രസ്സർ അത് ഈർപ്പ രഹിതമായിരിക്കണം പൊടിയിൽ നിന്നും മറ്റ് മാലിന്യങ്ങളിൽ നിന്നും ഈ ബെല്ലോസ് ഉപയോഗിച്ച് നമ്മൾ മെഷീനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ പൊടിപടലങ്ങൾ ചലിക്കുന്ന കോംപോണേന്റിനിടയിൽ വന്ന് അത് അബ്രസീവ് ആയി പ്രവർത്തിക്കാൻ പാടില്ല അത് ദീർഘകാലാടിസ്ഥാനത്തിൽ മെഷീനെ കേടാക്കിയേക്കാം അതിനാൽ അതിനെ സംരക്ഷിക്കുന്നതിനും യന്ത്രങ്ങൾ നശിപ്പിക്കപ്പെടാതിരിക്കുന്നതിനും വേണ്ടി ഇത്തരത്തിലുള്ള റഫ്രിജറേഷൻ എയർ കംപ്രസ്സറും ഈർപ്പ രഹിത എയർ കംപ്രസ്സറും ഉപയോഗിക്കുന്നു ഇതാണ് കൺട്രോൾ വാൽവ് അതിനാൽ കംപ്രസ്സറിന്റെ മുൻവശം ഇതുപോലെ കാണപ്പെടുന്നു ഇത് കെയ്സർ എയർ കംപ്രസ്സറാണ് ഇത് നമ്മുടെ കോ ഓർഡിനേറ്റ് മെഷറിംഗ് മെഷീനാണ് ഞാൻ പറഞ്ഞത് പോലെ ഇത് 3D ഒബ്ജക്റ്റുകളുടെ പാരാമീറ്റർ അളക്കാൻ ഉപയോഗിക്കുന്നു 3D ഒബ്ജക്റ്റുകൾ സങ്കീർണ്ണമായ ജോമെട്രി അല്ലെങ്കിൽ ചില സ്പെസിമെനുകൾ ആകാം അതിനാൽ സിഎംഎമ്മിന്റെ സഹായത്തോടെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും അതിനാൽ ഇതിന് 3 ആക്സിസ് ഉണ്ട് ശരി x y z ഇത് ഒരു 3D ഒബ്ജക്റ്റാണ് ഈ കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ ഉപയോഗിച്ച് നമ്മൾ അത് അളക്കും ശരി ഈ കോംപോണേന്റിന്റെ ഫീച്ചേർസ് അളക്കാൻ നമ്മൾ ശ്രമിക്കും ഇവിടെ നിരവധി സർക്കിളുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ശരി സെന്റർ സർക്കിൾ ഉണ്ട് ഇവിടെ ഒരു സെന്റർ സിലിണ്ടർ ഉണ്ട് ശരി നമുക്ക് ഇവിടെ സർക്കിളുകൾ ഉണ്ട് ശരി അതിനുശേഷം നമുക്ക് ഇവിടെ ഈ സെന്റർ സിലിണ്ടറിന് ചുറ്റും 6 സിലിണ്ടറുകൾ ഉണ്ട് ശരി ഞാൻ ഈ പൂർണ്ണ സിലിണ്ടർ മെഷർ ചെയ്യുന്നു ശരി അതിനുശേഷം ഞാൻ ഈ 6 സർക്കിളുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും അത് മെഷർ ചെയ്യുകയും ചെയ്യും സിലിണ്ടറുകളല്ല അതുപോലെ മറ്റേ ദിശയിൽ നമുക്ക് ഒരു കോൺ ഉണ്ട് നമുക്ക് ഇവിടെ ഈ കോൺ ഉണ്ട് നമുക്ക് ഈ ഉപരിതലം ഒരു ആംഗിളിൽ ആണ് ഉള്ളത് ഈ ഉപരിതലവും ഈ പ്ലെയിനും അതുപോലെ ഈ പ്ലെയിനും 90 ഡിഗ്രിയിൽ ആണ് അതിനാൽ ഞാൻ ആദ്യം ആക്സിസിനെ കുറിച്ച് സംസാരിക്കാം ശരി ഇവയാണ് മൂന്ന് ആക്സിസുകൾ ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻഡിക്കേറ്റർ ഓണാണെന്ന് ഇതാണ് നമ്മുടെ y ആക്സിസ് ആണ് ഞാൻ ഈ ദിശയിലേക്ക് നീങ്ങുമ്പോൾ ഇത് നമ്മുടെ y ആക്സിസ് ആണ് ശരി ഇതാണ് നമ്മുടെ z ആക്സിസ് യഥാർത്ഥത്തിൽ ഇത് LVDT ആണ് നമുക്ക് 3 LVDT കളുണ്ട് ഓരോ ആക്സിസിനും LVDT ഉണ്ട് ഈ LVDT z ആക്സിസിന് വേണ്ടിയുള്ളതാണ് അതിനാൽ കോളത്തിനുള്ളിൽ മുകളിൽ നമുക്ക് ഇവിടെ y ആക്സിസിനുണ്ട് ഒപ്പം നമുക്ക് ഇവിടെ x ആക്സിസിനുമുണ്ട് ശരി ഇത് 90 മുതൽ 180°വരെ തിരിക്കാൻ കഴിയുന്ന പ്രോബ് ആണ് ശരി മറ്റൊന്ന് ഇത് 180° ആണ് ശരി നിങ്ങൾക്ക് ഇത് തിരിക്കാൻ കഴിയും ഇത് 90° ലേക്ക് തിരിക്കാം 0 മുതൽ 90 വരെ ശരി അതിനാൽ നമുക്ക് ഇവിടെ ഇത് 90 ഡിഗ്രിയിലേക്ക് സൂചികയിലാക്കാം അതിനാൽ 180 ലേക്ക് പോയിന്റ് സൂചിക ഇടുക അതിനാൽ ഇതാണ് മുൻ വശം അത് സ്റ്റൈലസ് എന്നറിയപ്പെടുന്നു ഇത് സ്റ്റൈലസ് ആണ് നിങ്ങൾ സ്റ്റൈലസിന്റെ അഗ്രം നോക്കിയാൽ കാണാം ഇത് നീലക്കല്ലിന്റെ മെറ്റീരിയലും അതിന്റെ വ്യാസം 2 മില്ലീമീറ്ററുമാണ് അതിനാൽ ഈ ഭ്രമണത്തെ A എന്നും ഈ ഭ്രമണത്തെ B എന്നും വിളിക്കുന്നു ശരി A ക്ക് 90 ഡിഗ്രി വരെ തിരിക്കാൻ കഴിയും B ക്ക് 180 വരെ തിരിക്കാൻ കഴിയും ശരി 90 വരെ തിരിക്കാം ഈ ദിശയിൽ B ക്ക് 180 വരെ തിരിക്കാൻ കഴിയും അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ നമ്മൾ അത് വിശദീകരിക്കാൻ ശ്രമിക്കും സോഫ്റ്റ്വെയറിന്റെ പേര് റ്റാൻഗ്രാം സോഫ്റ്റ്വെയർ എന്നാണ് അതിനാൽ ഇവിടെ എങ്ങനെ ആരംഭിക്കാം നിങ്ങൾ ആദ്യം UCC സെർവറിൽ ക്ലിക്കുചെയ്യുക UCC എന്നാൽ യൂണിവേഴ്സൽ CMM കൺട്രോളർ എന്നാണ് നമുക്ക് റെനിഷോ UCC കൺട്രോളർ ഉണ്ട് അത് ഒരു കോർഡിനേറ്റ് മെഷറിങ് മെഷീനിന്റെ ഹാർഡ്വെയറിനെ കോർഡിനേറ്റ് മെഷറിങ് മെഷീനിന്റെ ഹോസ്റ്റ് കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അതിനാൽ ഇതാണ് ഹോസ്റ്റ് കമ്പ്യൂട്ടർ നമുക്ക് ഹാർഡ്വെയർ മെഷീൻ ഉണ്ട് അതിനാൽ റീഡ് ഹെഡ്സ് പ്രോബ്സ് പ്രോബ് ഹെഡ്സ് കൺട്രോളറുകൾ ലിമിറ്റ് സ്വിച്ചുകൾ എമർജൻസി സ്റ്റോപ്പ് അനലോഗ് സിഗ്നലുകൾ സെർവർ ആംപ്ലിഫയർ ജോയ്സ്റ്റിക്ക് യൂണിറ്റ് read heads probes probe heads controllers limit switches emergency stop analogue signals server amplifier joystick unit ഇവയെല്ലാം കോർഡിനേറ്റ് മെഷറിങ് മെഷീനിന്റെ കോംപോണന്റുകൾ ആണ് ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയറിൽ നിന്ന് CMM ന്റെ നിയന്ത്രണം അനുവദിക്കുക എന്നതാണ് UCC യുടെ ലക്ഷ്യം ആവശ്യമുള്ള റെസ്പോൺസ് നൽകാൻ വേണ്ടി CMM പ്രോബ് സിസ്റ്റത്തിലേക്ക് കൺട്രോളർ ഒരു കൺട്രോൾ സിഗ്നലുകൾ നൽകുന്നു ഉദാഹരണത്തിന് തന്നിരിക്കുന്ന പാരാമീറ്ററുകളിലേക്ക് ടാർഗെറ്റ് പൊസിഷൻ ചെയ്യുന്നതിന് വേണ്ടി ഈ UCC കൺട്രോളർ നിർവ്വഹിക്കുന്ന ചില ഉദ്ദേശ്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഡാറ്റ ട്രാൻസ്ഫറും കൺട്രോളും അതിനുശേഷം ഒരു കൺട്രോളറുമായുള്ള ആശയവിനിമയം തുടർന്ന് CMM മെഷറിങ് ആക്ക്യൂറസി എൻഹാൻസ്മെന്റ് പോലുള്ള പ്രത്യേക കൺട്രോൾ ഫീച്ചറുകളും ഉണ്ട് അതിനുശേഷം മെഷർമെന്റ് കോർഡിനേറ്റ്സ് സിസ്റ്റം നമുക്ക് വ്യത്യസ്ത കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കാം ഡിജിറ്റൈസിങ്ങും അതുപോലെ സ്കാൻ ചെയ്യാനുള്ള കഴിവുകളും ഉണ്ട് അവിടെ തുടർന്ന് ഈ കൺട്രോളർ ഉപയോഗിച്ച് ഡാറ്റാ ഫിൽട്ടറിംഗും ഇവിടെ സംഭവിക്കാം കാരണം നമുക്ക് ഫയൽ IGES ഫോർമാറ്റിൽ സൃഷ്ടിക്കാൻ കഴിയും അപ്പോൾ എന്താണ് IGES ഫോർമാറ്റ് നമ്മൾ IGES ഫോർമാറ്റ് നിർമ്മിക്കും അതിൽ ധാരാളം കോഡുകൾ ഉണ്ടാക്കുന്നു കോഡുകളെ കുറിച്ച് വിവരം ഉള്ള ഒരാൾക്ക് ഏതെങ്കിലും ആകൃതി ഉണ്ടാക്കുമ്പോൾ ആ ഫോർമാറ്റ് ഉപയോഗിക്കാനും കഴിയും ഒരു കാര്യം വേണ്ടത് ജോമെട്രിക്കൽ ആകൃതി മാത്രമാണ് മറ്റൊരു കാര്യം എന്നത് നമുക്ക് ഡാറ്റ എക്സൽ ഫോർമാറ്റിൽ ഉണ്ടായിരിക്കാം നമുക്ക് ഡാറ്റ IGES ഫോർമാറ്റിൽ ഉണ്ടായിരിക്കാം ഗ്രാഫിക് യൂസർ ഇന്റർഫേസ് ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കാം അതിനാൽ ഇവ സാധ്യമാണ് മറ്റ് കോംപോണന്റുകളിലേക്കും ഇന്റർഫേസിംഗ് ഈ UCC കൺട്രോളർ വഴി സാധ്യമാണ് അപ്പോൾ അടുത്തതായി ഞാൻ ഒബ്ജക്റ്റിന്റെ ഫീച്ചറുകൾ അളക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ നമ്മൾ ഇവിടെ മെഷീനിൽ ക്ലിക്കുചെയ്യുന്നു ശരി നമ്മൾ ഇവിടെ റൈറ്റ് ക്ലിക്കുചെയ്യുന്നു എന്നിട്ട് സെറ്റ് ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇവിടെ സെറ്റ് ക്ലിക്കുചെയ്യുമ്പോൾ അതിനാൽ നമ്മൾ യെസ് എന്ന് ക്ലിക്കുചെയ്യുമ്പോൾ മെഷീൻ ഇപ്പോൾ ഹോം പൊസിഷനിലേക്ക് പോകുന്നു ഒരു റഫറൻസ് ടൂൾ നിങ്ങൾ ക്ലിക്കുചെയ്യുമ്പോൾ മെഷീൻ ഹോം പൊസിഷനിലേക്ക് പോകുന്നു മെഷീൻ സ്വയം ഹോം പൊസിഷനിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഒന്നിലധികം ആവശ്യങ്ങൾക്കായി ഹോം പൊസിഷനിലേക്ക് പോകുക എന്നാൽ ഒരു കാര്യം ഉറപ്പാക്കുന്നു അതായത് ഓരോ കോംപോണേന്റുകളും ശരിയായി പ്രവർത്തിക്കുന്നു എന്ന് രണ്ടാമത്തെ കാര്യം എന്നുവെച്ചാൽ ഓപ്പറേറ്റർ അത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നിടത്തെല്ലാം ആവശ്യമുള്ള സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ മെഷീന് ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട് ശരി ഇത് ആദ്യം വെയിറ്റ് ചെയ്യും എന്നിട്ട് z ഹോം പൊസിഷനിലേക്ക് പോകുന്നു എന്നിട്ട് അത് y ഹോം പൊസിഷനിലേക്ക് പോകുന്നു അതിനുശേഷം അത് x ഹോം പൊസിഷനിലേക്ക് പോകുന്നു എനിക്ക് ഇത് വീണ്ടും ആവർത്തിക്കാൻ കഴിയും അതിനാൽ ആദ്യത്തേത് z ഹോം പൊസിഷൻ ആണ് അതിനുശേഷം y ഹോം പൊസിഷൻ ഇത് y ഉം x ഉം ആണ് അത് ഒരേസമയം മൂവ് ചെയ്യുന്നു y x ഹോം പൊസിഷൻ അതിനാൽ ഇത് ഇപ്പോൾ ഹോം പൊസിഷനിലേക്ക് മാറി ഇപ്പോൾ മെഷീൻ ഹോം ചെയ്തു ശരി മറ്റ് കോംപോണേന്റ്സിന് നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉണ്ട് അതുപോലെ നമുക്ക് ഈ ഗ്രാനൈറ്റ് സർഫേസ് പ്ലേറ്റ് അല്ലെങ്കിൽ സർഫേസ് ടേബിൾ ഉണ്ട് ഇവിടെ ഈ 0 ഗ്രേഡ് സർഫേസ് പ്ലേറ്റിനു ഞാൻ പറഞ്ഞതുപോലെ ആക്ക്യൂറസി വളരെ ഉയർന്നതാണ് അതുപോലെ താപ വികാസം 0 ആണ് ശരി മെഷീനിന്റെ സൈസ് 500 ആണ് ഈ ദൂരം x ഈ ദൂരം ആണ് 500 5 6 4 ഈ ദൂരം 600 ആണ് ഇവിടം മുതൽ ഇവിടെ വരെ ഈ ദൂരം 600 ഉം ഉയരം 400 ഉം ആണ് അതിനാൽ അതുകൊണ്ടാണ് ഇത് 5 6 4 എന്ന് അറിയപ്പെടുന്നത് അതിനാൽ ഇത് സ്പെക്ട്ര 5 6 4 ആണ് അടുത്ത കോംപോണേന്റ് ജോയിസ്റ്റിക്ക് ആണ് ശരി നമ്മൾ ഈ ജോയിസ്റ്റിക്ക് ഘടികാരദിശയിൽ തിരിക്കുമ്പോൾ അത് ദിശയെ താഴേക്ക് നീക്കുന്നു ഞാൻ അതിനെ എതിർ ഘടികാരദിശയിൽ തിരിക്കുമ്പോൾ അത് z നെ മുകളിലേക്ക് നീക്കുന്നു ശരി അതിനാൽ ഇത് ലെഫ്റ്റ് x ആക്സിസ് മോഷൻ ആണ് അതുപോലെ എനിക്ക് റൈറ്റ് x ആക്സിസ് മോഷൻ ഉണ്ടാകാം y ആക്സിസ് വീണ്ടും പുറക് വശത്ത് പിന്നെ മുൻ വശത്ത് അതിനാൽ സിമ്പിൾ ജോയിസ്റ്റിക്ക് y x ആക്സിസ് മാത്രം നിയന്ത്രിക്കുന്ന പ്രവർത്തനം അത് അവിടത്തെ ചലനങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ് അതിനാൽ ഒരു കാര്യം എന്താണെന്നുവെച്ചാൽ ഘടികാരദിശയിലും എതിർ ഘടികാരദിശയിലും ഉള്ള ഈ നോബിന്റെ റോട്ടേഷൻ z ആക്സിസ് മൂവ്മെന്റിനെ വേഗത്തിലാക്കുന്നു ഇത് അതിവേഗം മുന്നോട്ട് പോകുന്നു ഇത് ജോയിസ്റ്റിക്ക് ആണ് x y z അതിനാൽ ആവശ്യമെങ്കിൽ ഇത് സെൻസിറ്റീവ് മോഡിന്റെ ഇടപെടലാണ് അതിനാൽ നമ്മൾ ഇതിൽ പ്രവർത്തിക്കില്ല ഇവിടെയുള്ള സോഫ്റ്റ്വെയർ ടാൻഗ്രാം ആണ് ഇവിടെ ഇൻഡിക്കേറ്റർ ഉണ്ട് ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യും അതുപോലെ ഇത് സ്പർശിക്കുമ്പോൾ ഒരു ബീപ്പ് ശബ്ദവും വരും അതിനാൽ റെക്കോർഡുചെയ്ത വീഡിയോയ്ക്ക് ശബ്ദം നൽകാൻ നമ്മൾ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നു യഥാർത്ഥ ലബോറട്ടറി അവസ്ഥകൾ തികച്ചും ശബ്ദമുഖരിതമാണ് നമ്മൾ മെഷർമെൻറ് ആരംഭിക്കുമ്പോൾ യഥാർത്ഥ ലബോറട്ടറി അവസ്ഥകൾ കാണിക്കാനും ഞങ്ങൾ ശ്രമിക്കും ഒപ്പം അവിടെയുള്ള വോയിസും നോയിസും കേൾക്കാൻ താൽപര്യപ്പെടുന്നു ഇപ്പോൾ നമ്മൾ ന്യൂ പ്രോജെക്ടസ് ഓപ്പൺ ചെയ്യുന്നു തുടർന്ന് സ്ക്രീൻ ഓപ്പൺ ആകുന്നു ആദ്യം നമ്മൾ റഫറൻസ് സിസ്റ്റം എടുക്കുന്നു അതിനുശേഷം മുകളിലെ പ്ലെയിനിൽ നിന്ന് നമ്മൾ 3 പോയിന്റുകൾ എടുക്കുന്നു ഒപ്പം മറ്റേ പ്ലെയിനിൽ നിന്ന് 3 പോയിന്റുകൾ എടുക്കുന്നു അതുപോലെ ഒരു റീജിയനിൽ നിന്ന് സിലിണ്ടറിക്കൽ പോയിന്റ് എടുക്കുന്നു അതിനുശേഷം നമ്മൾ പ്ലെയിൻ തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് ജോയിസ്റ്റിക്ക് മൂവ് ചെയ്യുന്നു അതിനാൽ ഇത് നമ്മുടെ വർക്ക് പീസാണ് അതിന്റെ ഫീച്ചറുകൾ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നു അതിനാൽ ഈ പ്ലെയിനിൽ നമ്മൾ 3 പോയിന്റുകൾ എടുക്കും 3 പോയിന്റുകൾ ഈ പ്ലെയിനിൽ ശരി അതിനാൽ ഇതാണ് നമ്മുടെ സിലിണ്ടർ ഈ പ്ലെയിൻ എന്താണ് ഇതാണ് z y പ്ലെയിൻ ഇത് z x പ്ലെയിൻ ആണ് ടോപ്പ് പ്ലെയിൻ എന്താണ് ഇത് x y പ്ലെയിൻ ആണ് ശരി അതിനാൽ ഇത് നമ്മൾ പ്ലെയിൻ തിരഞ്ഞെടുത്തു പ്ലെയിൻ 1 അത് പോയിന്റുകൾ റെക്കോർഡുചെയ്യാൻ ശ്രമിക്കും ഒരു പ്ലെയിനിനെ നിർവചിക്കാൻ കുറഞ്ഞത് 3 പോയിന്റുകളെങ്കിലും ആവശ്യമാണ് അതിനാൽ ജോയിസ്റ്റിക്ക് ഉപയോഗിച്ച് പോയിന്റുകൾ റെക്കോർഡുചെയ്യും നമ്മൾ കോംപോണേന്റിന് അടുത്തേക്ക് പ്രോബ് നീക്കാൻ ശ്രമിക്കുന്നു നമ്മൾ പ്രോബിന്റെ അഗ്രം തൊടുമ്പോൾ ആ മെറ്റീരിയൽ നീലക്കല്ല് ആണ് നമ്മൾ അത് വീണ്ടും ചെയ്യുന്നു നമ്മൾ പ്ലെയിൻ തിരഞ്ഞെടുത്തു എല്ലാ കോംപോണേന്റുകളും മൂവ് ചെയ്യുന്നതിന് മുൻപ് ആയിട്ട് നമുക്ക് പോയിന്റ് ലൈൻ പ്ലെയിൻ സർക്കിൾ ആർക്ക് സിലിണ്ടർ ഉണ്ട് കോണിൽ 8 പോയിന്റുകൾ സ്ഫിയറിൽ 8 പോയിന്റുകൾ ഈ ലെയറിനായി നമുക്ക് ഒന്നിലധികം പോയിന്റുകൾ ആവശ്യമാണ് സ്ലോട്ട് ചതുര സ്ലോട്ടുകൾ എലിപ്സ് കർവ് സർഫേസ് എല്ലാം അവിടെ ഉണ്ട് ഇവിടെ ഈ സോഫ്റ്റ്വെയറിൽ ഒന്നിലധികം ഒബ്ജക്റ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം കൂടാതെ ഇത് പൊതുവായതോ അല്ലെങ്കിൽ സ്ട്രക്ചേഡ് സർഫേസുകൾ മാത്രമാണ് ഫ്രീ ഫോം സർഫേസ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ഫോമുകൾ അളക്കുമ്പോൾ മാത്രമാണ് അതിനുശേഷം നമുക്ക് ഡിസ്റ്റൻസ് ആംഗിൾ പോയിന്റ് ഉണ്ട് ഇവയാണ് നിർമ്മാണ നടപടികൾ ശരി എന്നാൽ നമുക്ക് പ്ലെയിനും ലൈനും മെഷർ ചെയ്യേണ്ടതുണ്ട് ഇത് നിർമ്മാണത്തിന്റെ ഒരു പൊതു നടപടിയാണ് അതിനുശേഷം ത്രീ ഡൈമെൻഷണൽ മറ്റ് രൂപങ്ങൾ പോലുള്ള മറ്റ് നിരവധി ടൂളുകൾ നമ്മുടെ പക്കലുണ്ട് നമ്മൾ ഇത് 1 2 3 എന്നിവയിൽ തൊടുകയാണ് ശരി 3 പോയിന്റുകൾ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇത് ഈ പ്ലെയിൻ ഇവിടെ കാണിച്ചിരിക്കുന്നു ഈ പ്ലെയിൻ 1 ഇപ്പോൾ നിർവചിച്ചിരിക്കുന്നു നമുക്ക് പ്ലെയിനിന് പേരിടാനും x y പ്ലെയിൻ എന്ന് പേരിടാനും കഴിയും നമ്മൾ നൽകാൻ ആഗ്രഹിക്കുന്ന ഏത് പേരും അതിന് അടയാളപ്പെടുത്താൻ കഴിയും നമുക്ക് പ്ലെയിനിന് പേരിടാം പക്ഷേ അത് അതിനെ പ്ലെയിൻ 1 എന്ന് അടയാളപ്പെടുത്തി കാരണം പ്ലെയിൻ 1 എന്ന് ആയിരുന്ന ഡീഫോൾട്ട് നെയിം നിങ്ങൾ മാറ്റിയിട്ടില്ല ഇപ്പോൾ നമ്മൾ വീണ്ടും പ്ലെയിൻ തിരഞ്ഞെടുക്കും അത് പ്ലെയിൻ 2 തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഞാൻ y z പ്ലെയിൻ തിരഞ്ഞെടുക്കുന്നു 1 2 3 അവിടെ പ്രകാശം മിന്നിമറയുന്നത് നിങ്ങൾക്ക് കാണാം അതിനർത്ഥം പ്രോബ് 1 2 3 ൽ സ്പർശിച്ചു 3 പോയിന്റുകൾ റെക്കോർഡ് ചെയ്തു അതുപോലെ ഇതിന് ലംബമായ രണ്ടാമത്തെ പ്ലെയിൻ ജനറേറ്റ് ചെയ്തു പ്ലെയിൻ 1 ഒപ്പം പ്ലെയിൻ 2 ഇപ്പോൾ ഞാൻ സിലിണ്ടർ മെഷർ ചെയ്യും അതിനാൽ പ്ലെയിനിനായി 3 പോയിന്റുകൾ സിലിണ്ടറിന് വേണ്ടി തിരഞ്ഞെടുത്തു നമുക്ക് 8 പോയിന്റുകൾ ആവശ്യമാണ് ശരി 8 പോയിന്റുകൾ ഒരു പ്ലെയിനിൽ 4 പോയിന്റുകൾ രണ്ടാമത്തെ പ്ലെയിനിൽ മറ്റ് 4 പോയിന്റുകൾ 4 പോയിന്റുകൾ ഒരു പ്ലെയിൻ എന്നതിനർത്ഥം 4 പോയിന്റ് എനിക്ക് സിലിണ്ടറിന്റെ ലൊക്കേഷൻ നൽകും അത് ഒരു സർക്കിളിനെ അടയാളപ്പെടുത്തും പ്രാരംഭ പ്ലെയിനിനേക്കാൾ 4 പോയിന്റുകൾ ആഴത്തിൽ രണ്ടാമത്തെ സർക്കിൾ നൽകും ഈ രണ്ട് സർക്കിളുകളും ഒരു സിലിണ്ടർ ജനറേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും കോണും സമാനമായി ജനറേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ ഇത് 1 2 3 4 എന്നിവയാണ് ശരി അതുപോലെ ചെറിയ ഡെപ്ത് 1 2 3 4 ശരി ഈ സിലിണ്ടർ പ്രൊഫൈൽ ജനറേറ്റുചെയ്തത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതിനാൽ നമുക്ക് പ്ലെയിൻ ഒന്ന് പ്ലെയിൻ രണ്ട് സിലിണ്ടർ എന്നിവയുണ്ട് ഇപ്പോൾ നമുക്ക് റഫറൻസ് സിസ്റ്റം സജ്ജമാക്കാൻ കഴിയും ബാക്കി വർക്ക് പീസുകൾക്കായി നമ്മുടെ റഫറൻസ് പോയിന്റ് എന്തായിരിക്കണം അതിനാൽ ഈ സിലിണ്ടറിന്റെ മധ്യഭാഗത്തെ റീജിയൻ ആയി നിലനിർത്താൻ എനിക്ക് കഴിയും അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ റഫറൻസ് സിസ്റ്റം തിരഞ്ഞെടുക്കുന്നു പ്രൈമറി ആക്സിസ് തിരഞ്ഞെടുക്കുക ഇവിടെ പ്രൈമറി ആക്സിസ് ഇപ്പോൾ പ്രൈമറി ആക്സിസിന് ശേഷം ഞാൻ തിരഞ്ഞെടുക്കും ഞാൻ പ്ലെയിൻ വൺ മൈനസ് z ദിശ തിരഞ്ഞെടുക്കും അത് പ്ലെയിൻ 1 പ്ലെയിൻ 2 സിലിണ്ടർ എന്നിവ ആയിരിക്കും പ്ലെയിൻ 1 പ്ലെയിൻ 2 ഉം അതിനുശേഷം സിലിണ്ടറാണ് ശരി ഇപ്പോൾ സിലിണ്ടറിന്റെ മധ്യഭാഗമാണ് എന്റെ ഒറിജിൻ സിലിണ്ടറിന്റെ മധ്യഭാഗമാണ് എന്റെ ഒറിജിൻ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതിനാൽ ഇതാണ് എന്റെ റഫറൻസ് രണ്ട് പ്ലെയിനുകളും ഒരു സിലിണ്ടർ സെന്ററും റഫറൻസ് സിസ്റ്റം തിരഞ്ഞെടുക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചു നമുക്ക് ഇവിടെ ഒറിജിൻ പോയിന്റ് ലഭിച്ചു അതാണ് ഇവിടെ സെന്റർ പോയിന്റ് അല്ലെങ്കിൽ ഒറിജിൻ പോയിന്റ് അതിനാൽ അടുത്തത് എല്ലാ പാരാമീറ്ററുകളും എങ്ങനെ അളക്കാം എന്നതാണ് നമുക്ക് ഇവിടെ സർക്കിളുകൾ തിരഞ്ഞെടുക്കാം ബേസിക് സർക്കിളുകൾ ഇത് ഇവിടെയും കോൺ ആണ് അതിനാൽ സർക്കിൾ മെഷർ ചെയ്യാൻ നമ്മൾ ഇവിടെ നിന്ന് സർക്കിൾ തിരഞ്ഞെടുക്കും അതിനുശേഷം മെഷർമെന്റ് പാരാമീറ്ററുകൾ നമ്മൾ ഇത് 2 മില്ലീമീറ്ററിൽ നിന്ന് 1 മില്ലീമീറ്ററായി മാറ്റാൻ ശ്രമിക്കുന്നു അതിനാൽ ഒരു സർക്കിൾ ലൊക്കേറ്റ് ചെയ്യാൻ കുറഞ്ഞത് 3 പോയിന്റുകളെങ്കിലും ആവശ്യമാണ് അതിനാൽ ഇത് 1 2 3 ആണ് സർക്കിൾ ഇപ്പോൾ സ്ഥിതിചെയ്യുന്നു കാരണം ഒറിജിൻ ഇവിടെ ഈ പോയിന്റിൽ നമുക്ക് ഇതിനകം തന്നെയുണ്ട് നമുക്ക് ഒറിജിൻ ഉണ്ട് ഈ ഒറിജിന്റെ ദൂരം ഇവിടെ നിന്നും അതുപോലെ ഈ സർക്കിളും സ്വയം ലൊക്കേറ്റ് ചെയ്യും ശരി ആദ്യം സർക്കിൾ മറ്റൊന്ന് ഇവിടെ നമുക്ക് ഈ x സർക്കിൾ ജനറേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ ഞാൻ ഇവിടെ ഒരു സിലിണ്ടർ നിർമ്മിക്കുന്നില്ല ഞാൻ ഒരു സർക്കിൾ നിർമ്മിക്കുന്നു മുമ്പത്തെ സിലിണ്ടറിന് അല്ലെങ്കിൽ സെന്റർ സിലിണ്ടറിന് നമ്മൾ ചെയ്ത അതേ രീതിയിൽ 8 പോയിന്റുകൾ എടുത്ത് നമുക്ക് ഇത് നിർമ്മിക്കാൻ കഴിയും ഇപ്പോൾ രണ്ടാമത്തേത് രണ്ടാമത്തെ സർക്കിൾ ശരി ഞാൻ നിങ്ങളെ ലബോറട്ടറി അവസ്ഥകൾ കാണിക്കാൻ ശ്രമിക്കുന്നു അതായത് ലബോറട്ടറിയിലെ ശബ്ദം എന്താണ് എന്ന് അറിയാൻ ഞാൻ എന്റെ ശബ്ദം ഓണാക്കുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാം 1 2 3 4 നമ്മൾ 4 പോയിന്റുകൾ അടയാളപ്പെടുത്തി കുറഞ്ഞത് 3 പോയിന്റുകൾ നാലാമത്തെ പോയിന്റും അടയാളപ്പെടുത്താം നിങ്ങൾക്ക് ലബോറട്ടറിലെ അവസ്ഥ കാണാൻ കഴിയും അവിടെ ധാരാളം ശബ്ദമുണ്ട് അതിനാലാണ് നമ്മൾ ലബോറട്ടറിയിൽ വേറിട്ട് പ്രത്യേകം റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചത് അതിനാൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ഇൻഡിക്കേറ്റർ മിന്നുന്നതും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും അതുപോലെ ബീപ്പും അവിടെയുണ്ട് 1 2 3 4 4 പോയിന്റുകൾ അടയാളപ്പെടുത്തി ശരി നമുക്ക് ആരംഭിക്കാം സർക്കിളിന് 4 പോയിന്റുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഈ സർക്കിളുകളെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു 1 2 3 4 ആ പ്രോബ് ഉപരിതലത്തിൽ സ്പർശിക്കുമ്പോൾ ഈ പോയിന്റുകൾ ഇവിടെ അടയാളപ്പെടുത്തുന്നു അതിനാൽ ഈ 6 സർക്കിളുകൾ ഇവിടെ സ്ഥിതിചെയ്യുന്നു ശരി ഇപ്പോൾ വീണ്ടും പ്ലെയിൻ സെലക്ട് ചെയ്യുക അതിനാൽ അത് സ്ലാന്റ് പ്ലെയിൻ മെഷർ ചെയ്യും നമുക്ക് ഈ സ്ലാന്റ് പ്ലെയിൻ ഇവിടെ നിർമ്മിക്കാം കൂടാതെ നമ്മൾ 1 3 4 അടയാളപ്പെടുത്താൻ ശ്രമിക്കും നമുക്ക് 3 പോയിന്റിൽ കൂടുതൽ അടയാളപ്പെടുത്താനും കഴിയും ഈ സ്ലാന്റ് പ്ലെയിനും ഇവിടെ സ്ഥിതിചെയ്യുന്നു അതിനാൽ ഈ രണ്ട് പ്ലെയിനുകൾ തമ്മിലുള്ള ആംഗിൾ എന്താണ് ഈ സ്ലാന്റ് പ്ലെയിനും അതുപോലെ ഈ x y പ്ലെയിനും തമ്മിൽ അതിനാൽ നമുക്ക് കൺസ്ട്രക്ഷനിലേക്ക് പോകാം നമുക്ക് ഇവിടെ അളവുണ്ടെന്നും അതുപോലെ നമുക്ക് ഇവിടെ കൺസ്ട്രക്ഷനും ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കൺസ്ട്രക്ഷനിൽ നമുക്ക് ആംഗിൾ ക്ലിക്കുചെയ്യാം നിങ്ങൾക്ക് ഏത് പ്ലെയിനുകൾക്ക് ഇടയിൽ ഉള്ള ആംഗിൾ ആണ് ആവശ്യമുള്ളതെന്ന് ഇപ്പോൾ ചോദിക്കും പ്ലെയിൻ ഒന്നു ഒപ്പം പ്ലെയിൻ മൂന്ന് ശരി അതിനാൽ പ്ലെയിൻ 1 നും പ്ലെയിൻ 3 നും ഇടയിലുള്ള ആംഗിൾ 45 ഡിഗ്രിയാണ് അതിനാൽ ഇതാണ് ആംഗിൾ ഇത് 45 ഡിഗ്രി ആംഗിൾ കാണിക്കുന്നു അതിനാൽ ആംഗിളിന് സമാനമായി സിലിണ്ടർ 1 നും സർക്കിൾ 1 നും ഇടയിലുള്ള ദൂരം നമുക്ക് മെഷർ ചെയ്യാനാകും ഇത് സിലിണ്ടർ 1 ഉം സർക്കിൾ 1 ഉം ആയിരുന്നു ശരി അതിനാൽ നമ്മൾ ദൂരം തിരഞ്ഞെടുക്കും സിലിണ്ടർ 1 നും സർക്കിൾ 1 നും ഇടയിലുള്ള ദൂരം നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തു അതിനാൽ നമ്മൾ ഇവിടെ ദൂരം തിരഞ്ഞെടുത്തു ആംഗിളിന്റെ സ്ഥാനത്ത് ദൂരം സിലിണ്ടർ 1 നും സർക്കിൾ 1 നും ഇടയിലുള്ള ദൂരം ശരി അതിനാൽ സിലിണ്ടർ 1 തമ്മിലുള്ള ദൂരം ഇത് സർക്കിൾ 1 ഉം സിലിണ്ടർ 1 ഉം ആണ് അതായത് ഒറിജിൻ 11 98 ആണ് അത് നോമിനൽ എന്നും മെഷേർഡ് എന്നും കാണിക്കുന്നു ശരി ഇവിടെയുള്ള വ്യത്യസ്ത പ്ലെയിനുകൾ ഇത് x y പ്ലെയിൻ ആണ് ഇത് y z പ്ലെയിൻ ആണ് ഇത് x z പ്ലെയിൻ ആണ് ഇത് വീണ്ടും y z പ്ലെയിൻ ആണ് ശരി അതിനാൽ ഇത് വീണ്ടും x z പ്ലെയിൻ ആണ് ഇപ്പോൾ ഇത് 90 ഡിഗ്രി തിരിക്കുക A 90 ഡിഗ്രി B 180 ശരി ഞാൻ ആവർത്തിക്കട്ടെ ഇത് A 90 B 180 ആണ് ഞാൻ ഈ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിലും ഞാൻ ഈ മാറ്റം വരുത്തണം അതിനാൽ ഞാൻ A 90 എന്നും ബി 180 എന്നും ഇടും അതിനാൽ ഞാൻ ഈ മൂവ്മെന്റ് ഇടുകയാണ് അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് A 90 B 180 ആണ് ശരി നിങ്ങൾക്ക് ഇവിടെ A 90 B 180 എന്ന് കാണാം നമ്മൾ അതെ എന്ന് ക്ലിക്ക് ചെയ്യും കാരണം നമ്മൾ ഇപ്പോൾ y z പ്ലെയിനുകൾ മെഷർ ചെയ്യാൻ പോകുന്നു അതിനാലാണ് നമ്മൾ ഇതിനെ ഈ ദിശയിലേക്ക് തിരിച്ചത് ഇത് ഈ വശത്ത് ഉള്ള ഒരു ലോക്കിംഗ് നട്ട് ആണ് മറുവശത്ത് ലോക്കിംഗ് സ്ട്രെ ഉണ്ട് നമ്മൾ ഇവിടെ പ്രോബ് ലോക്ക് ചെയ്തു ഇപ്പോൾ നമ്മൾ ഈ y z പ്ലെയിനിനെ വീണ്ടും ലബോറട്ടറിയിൽ മെഷർ ചെയ്യുന്നു നമ്മൾ ഇവിടെയുള്ള ലബോറട്ടറി സാഹചര്യങ്ങളിൽ 8 പോയിന്റുകൾ അളക്കുന്നു 1234 ശരി നമ്മൾ ഇവിടെ മറ്റൊരു സിലിണ്ടർ കണ്ടെത്തി ശരി അത് സിലിണ്ടർ 1 സിലിണ്ടർ 2 നു 90 ഡിഗ്രിയിൽ ആണ് ഇത് സിലിണ്ടർ 2 ആണ് ഇത് സിലിണ്ടർ 1 ന് 90 ഡിഗ്രിയിൽ ആണ് ഉള്ളത് അപ്പോൾ പ്ലെയിനുകളിൽ നിന്നുള്ള ആഴം എത്രയാണ് നമ്മൾ വീണ്ടും പ്ലെയിൻ തിരഞ്ഞെടുക്കുന്നു ഇപ്പോൾ ഇത് y z പ്ലെയിൻ ആണ് 1 2 കൂടാതെ ഏത് പോയിന്റിലും നിങ്ങൾക്ക് ഇത് സ്പർശിക്കാം 3 ഇത് y z പ്ലെയിൻ ആണ് നമ്മൾ കൺസ്ട്രക്ഷനിലക്ക് പോകുന്നു എന്നിട്ട് പ്ലെയിനിൽ നിന്നുള്ള ദൂരം കാണാൻ ശ്രമിക്കുന്നു നിങ്ങൾ ഉയരമുള്ള സ്ഥാനത്തേക്ക് കൊണ്ടുപോയാൽ സിലിണ്ടർ 2 പ്ലെയിനുമായി ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് നോക്കാം ഇവിടെ കൺസ്ട്രക്ഷനിലക്ക് പോകുന്നു തുടർന്ന് നമ്മൾ ആംഗിൾ തിരഞ്ഞെടുക്കും ശരി ഈ ആംഗിൾ തിരഞ്ഞെടുത്തു നിങ്ങൾക്ക് കാണാൻ കഴിയും പ്ലെയിൻ 1 ഉം സിലിണ്ടർ 2 ഉം തമ്മിലുള്ള ആംഗിൾ പ്ലെയിൻ 1 എന്റർ അതുപോലെ സിലിണ്ടർ 2 അവിടെ ഉണ്ടായിരിക്കണം സിലിണ്ടർ 2 എന്റർ ശരി ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യും അതെ ഇപ്പോൾ ഈ സിലിണ്ടറിനും ഈ പ്ലെയിനിനും ഇടയിലുള്ള ആംഗിൾ എന്താണ് സിലിണ്ടറും ഈ പ്ലെയിനും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കണം എന്തെങ്കിലും ആംഗിൾ ഉണ്ടോ ഇല്ല ആംഗിൾ 0 ആയിരിക്കണം എന്താണ് ആംഗിൾ എന്ന് നമുക്ക് നോക്കാം കമ്പ്യൂട്ടർ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ഇത് ആംഗിൾ 0 173304 എന്ന് കാണിക്കുന്നു ഇത് 0 1 ന് അടുത്താണ് ശരി അതിനാൽ ഇത് 0 ആണ് ശരി അതിനാൽ ഈ ആംഗിൾ 0 ആണ് ഇത് കൺസ്ട്രക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ആംഗിൾ ദൂരം അളക്കാൻ കഴിയും തുടർന്ന് ആഴം ആർക്ക് depth arc അതുപോലെ എല്ലാം അളക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ ഈ കോൺ മെഷർ ചെയ്യും ഈ കോൺ ഇവിടെ വീണ്ടും നമ്മൾ പൊസിഷൻ മാറ്റുന്നു ഈ കോൺ മെഷർ ചെയ്യുന്നതിന് വേണ്ടി A ക്ക് അതിന്റെ 0 പൊസിഷനിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു നിങ്ങൾ A 0 അതുപോലെ B 0 എന്നിവ തിരഞ്ഞെടുക്കും അതിനാൽ നമ്മൾ അതെ എന്ന് ക്ലിക്ക് ചെയ്യും ശരി അതിനാൽ A വീണ്ടും 0 സ്ഥാനത്തേക്കും B വീണ്ടും 0 സ്ഥാനത്തേക്കും കൊണ്ടുവരുന്നു ആംഗിൾ 00 ആണ് നട്ട് ഇവിടെ ലോക്ക് ചെയ്യുക ശരി ഇപ്പോൾ നമ്മൾ കോൺ മെഷർ ചെയ്യും അതിനാൽ അത് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു ഇപ്പോൾ പോയിന്റുകൾ അടയാളപ്പെടുത്തുന്നു നമ്മൾ കോൺ മെഷർ ചെയ്യുന്നു 1234 അല്പം ആഴം രണ്ടാമത്തെ പ്ലെയിനിൽ അതിനാൽ ഒരു പ്ലെയിനിൽ 4 പോയിന്റുകൾ മറ്റൊരു പ്ലെയിനിൽ 4 പോയിന്റുകൾ നമ്മൾ അടയാളപ്പെടുത്തി അതിനാൽ ഇത് രണ്ട് വ്യത്യസ്ത പ്ലെയിനിൽ 4 4 8 പോയിന്റുകൾ ജനറേറ്റ് ചെയ്തു ഇതാണ് ഇവിടെ മെഷേർഡ് ഒപ്പം നോമിനൽ ഡൈമെൻഷനുകൾ അതിനാൽ നമുക്ക് നോക്കാം ഇത് റഫറൻസ് പ്ലെയിനിൽ നിന്നും കോണിന്റെ ഉയരവും നൽകുന്നു അതിനാൽ ഇവിടെ കോൺ ഉണ്ട് അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന കോൺ ആംഗിൾ 45 ഡിഗ്രിയാണ് തുടർന്ന് നമ്മൾ A 90 B 0 എന്നിവയിലേക്ക് പോകുന്നു A 90 ആയിരിക്കും B 0 എന്ന പൊസിഷനിൽ മാത്രം വയ്ക്കുന്നു ഞാൻ A യെ 90 ലേക്ക് തിരിക്കുന്നു A 90 ഡിഗ്രിയിലേക്ക് തിരിക്കുന്നു ഒപ്പം B 0 എന്ന പൊസിഷനിൽ മാത്രം വയ്ക്കുന്നു നമുക്ക് മറുവശത്ത് ഉള്ള പ്ലെയിൻ മെഷർ ചെയ്യാം ഇതിനെ പ്ലെയിൻ അഞ്ച് എന്ന് നാമകരണം ചെയ്യാം അതിനാൽ ഇത് y z പ്ലെയിൻ ആണ് അതായത് y ആക്സിസും z ആക്സിസും നമ്മൾ 3 പോയിന്റുകൾ തിരഞ്ഞെടുക്കും നമ്മൾ ഇവിടെ മറ്റൊരു പ്ലെയിൻ പരിശോധിക്കും y z പ്ലെയിൻ y z പ്ലെയിൻ സർക്കിളിന് സമീപമുള്ള 3 പോയിന്റുകൾ നമ്മൾ പരിശോധിക്കും നമ്മൾ ഈ പ്ലെയിൻ ഒരു ആംഗിളിൽ മെഷർ ചെയ്യുന്നു 1 2 3 ശരി അതിനാൽ നമ്മൾ പ്ലെയിൻ തിരഞ്ഞെടുക്കുന്നു y z പ്ലെയിൻ സർക്കിളിന് സമീപം 3 പോയിന്റുകൾ എടുക്കുക ഇത് ഒരു ആംഗിളിൽ ഉള്ള ഒരു പ്ലെയിൻ ആണ് ഇപ്പോൾ ഇതാണ് CMM ന്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സൌന്ദര്യം എന്നത് അതായത് ഒരൊറ്റ സെറ്റപ്പ് ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്ത ദിശകളിൽ ഉള്ള എല്ലാ പാരാമീറ്ററുകളും അളക്കാൻ കഴിയും ഇതൊരു സ്ട്രക്ച്ചർ ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ ഇത് അറിയപ്പെടുന്ന പാരാമീറ്ററിന്റെ ഒരു സ്ട്രക്ച്ചർ ആണ് സിലിണ്ടർ കോൺ അതുപോലെ ഉള്ള എല്ലാം കൂടാതെ ഫ്രീ ഫോമും മെഷർ ചെയ്യാൻ കഴിയും ശരി നമുക്ക് ഡാറ്റ ഫയലുകൾ IGES ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും അതിനാൽ ഈ എല്ലാ പാരാമീറ്ററുകളും എക്സ്പോർട്ടുചെയ്യാനാകും തുടർന്ന് നമുക്ക് ഇത് ഫയലിലേക്ക് സേവ് ചെയ്യാൻ കഴിയും അതെല്ലാം സംഭവിക്കാം അതിനാൽ അവർ ഇപ്പോൾ y z പ്ലെയിനിന് മറുവശത്തുള്ള സർക്കിൾ മെഷർ ചെയ്യുന്നു നമുക്ക് ഡാറ്റ എക്സൽ ഫോർമാറ്റിൽ സേവ് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഈ സർക്കിൾ വീണ്ടും അളക്കുന്നു ഈ പ്ലെയിൻ ഇപ്പോൾ വീണ്ടും അളക്കുന്നു y z പ്ലെയിൻ അളക്കുന്നു ശരി ഇപ്പോൾ നമ്മൾ y z പ്ലെയിനിലെ സർക്കിൾ അളക്കുന്നു ഇതുപോലെ മറുവശത്ത് സർക്കിൾ ഉണ്ട് യഥാർത്ഥത്തിൽ സിലിണ്ടറും ഉണ്ട് മറുവശത്ത് ശരി എന്നാൽ നമ്മൾ സർക്കിൾ മാത്രം മെഷർ ചെയ്യുന്നു 1234 ഈ സർക്കിൾ സ്ഥിതിചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം വലിയ സർക്കിൾ ഈ പ്ലെയിൻ സർക്കിളിൽ 7 ൽ പ്ലെയിൻ 6 ൽ ഇത് സർക്കിൾ 7 ആണ് ഇത് ഇവിടെ സ്ഥിതിചെയ്യുന്നു സമാനമായി നമുക്ക് എല്ലാ ഫീച്ചറുകളും ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നാൽ ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് കാണാൻ നമ്മൾ ശ്രമിക്കും IGES ഫോർമാറ്റ് അവിടെ ഉണ്ട് IGES ഫോർമാറ്റിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയും IGES ഫോർമാറ്റിൽ IGES ൽ ക്ലിക്കുചെയ്യുക അതിനാൽ എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യേണ്ടത് ഏതൊക്കെ കോംപെൻസേറ്റിങ് പോയിന്റുകൾ തുടർന്ന് നമ്മൾ അത് IGES ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു ശരി അതിനാൽ അത് ഡെസ്ക്ടോപ്പ് ഫ്രെയിം കർവിൽ സ്ഥിതിചെയ്യുന്നു IGES ഫോർമാറ്റ് അവിടെ സ്ഥിതിചെയ്യുന്നു അതിനാൽ നമുക്ക് IGES ഫോർമാറ്റ് വായിക്കാൻ കഴിയും കൂടാതെ എക്സലിലും ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ കഴിയും അതോടൊപ്പം നമുക്ക് PDF ഫയലും ലഭിക്കും നമ്മൾ ഇപ്പോൾ PDF ഫയൽ നിർമ്മിക്കുന്നു നമ്മൾ ഇതിന് a b c d എന്ന് പേരിടുന്നു ഇപ്പോൾ നമ്മൾ അത് സേവ് ചെയ്യുന്നു PDF ഇതിനകം ഇവിടെ സേവ് ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ PDF ഫയൽ തുറക്കുന്നു നമ്മൾ ജനറേറ്റ് ചെയ്ത എലമെന്റ് ലിസ്റ്റ് ഇതാണ് ഈ പ്ലെയിനും അതുപോലെ X Y Z എന്നീ പ്ലെയിനിന്റെ ഡൈമെൻഷൻസ് മെഷർ ചെയ്യുന്നു നോമിനൽ ആണ് അപ്പോൾ എന്താണ് വ്യതിയാനം മുകളിലേക്ക് താഴേക്ക് അപ്പോൾ ഈ വ്യതിയാനം നിങ്ങൾക്കറിയാം ഈ ഡിസ്ട്രിബൂഷൻ കൃത്യമായും ഡിസ്ട്രിബൂഷൻ അല്ല എന്നാൽ റ്റോളറൻസ് ഇവിടെ നിന്നും ലഭിക്കും തുടർന്ന് ആദ്യം പ്ലെയിൻ 1 മെഷർ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ അതിന്റെ പ്ലെയിൻ 2 ഡൈമെൻഷൻ അളന്നു സിലിണ്ടറിന് നമുക്ക് സിലിണ്ടറിന്റെ X Y Z വ്യാസമുണ്ട് സിലിണ്ടറിസിറ്റി 0 ന് അടുത്താണ് തുടർന്ന് അതിന്റെ സിഗ്മ മൂല്യം അതിനുശേഷം സർക്കിളിനു സർക്കുലാരിറ്റി ഉണ്ട് ഈ പെർഫെക്റ്റ് സർക്കിൾ പോലെ സർക്കുലാരിറ്റി 00 ആണ് അതിനാൽ X Y Z കോർഡിനേറ്റുകളും അതുപോലെ സർക്കിളിന്റെ വ്യാസവും ഇത് 6 മില്ലീമീറ്റർ വ്യാസമുള്ളതാണ് അതിനാൽ ഇത് 6 ന് അടുത്താണ് കാണിക്കുന്നത് ഇത് 12 മില്ലീമീറ്റർ വ്യാസമുള്ളതാണ് അതിനാൽ ഇത് 11 99 മില്ലിമീറ്ററാണ് ഇത് 12 മില്ലീമീറ്ററിനോട് വളരെ അടുത്താണ് തുടർന്ന് സർക്കിൾ 2 സർക്കിൾ 3 സർക്കിൾ 4 സർക്കിൾ 5 എല്ലാ സർക്കിളുകളും നമുക്കുള്ള ആദ്യത്തെ സർക്കിൾ അല്ലെങ്കിൽ സിലിണ്ടറിന് സമാനമായി സർക്കിൾ 2 സർക്കിൾ 3 സർക്കിൾ 4 സർക്കിൾ 5 അതിനുള്ള ഡൈമെൻഷൻ അതിനുശേഷം നമുക്ക് സർക്കിൾ 6 ഉണ്ട് പ്ലെയിൻ 3 അത് x y പ്ലെയിൻ ആണ് പ്ലെയിൻ 1 നും പ്ലെയിൻ 3 നും ഇടയിൽ നമ്മൾ അളന്ന ആദ്യ ആംഗിൾ 45 ഡിഗ്രി ആയിരുന്നു അതിനുശേഷം ഒറിജിന് ഇടയിൽ ഉള്ള ദൂരം നമ്മൾ മെഷർ ചെയ്തു ഒറിജിൻ അതായത് സിലിണ്ടറും സർക്കിളും ദൂരം ഇവിടെ നൽകിയിരിക്കുന്നു തുടർന്ന് സിലിണ്ടർ 2 ഫീച്ചറുകൾ അതിനാൽ ഈ ഫീച്ചറുകളെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യുന്നു പ്ലെയിൻ 1 നും സിലിണ്ടർ 2 നും ഇടയിലുള്ള ദൂരം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഈ ദൂരം 0 17 ആയിരുന്നു ശരി അതിനാൽ ഈ ദൂരം ഇവിടെ കാണിച്ചിരിക്കുന്നു അതിനാൽ നമ്മൾ മെഷർ ചെയ്ത ഈ ഫീച്ചറുകളെല്ലാം സ്റ്റോർ ചെയ്യുന്നു ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു ഈ ഡാറ്റ മാത്രമല്ല കോർഡിനേറ്റുകളിൽ നിന്ന് നമുക്ക് സമവാക്യങ്ങൾ ജനറേറ്റ് ചെയ്യാൻ കഴിയും കൂടാതെ നമുക്ക് ത്രീ ഡൈമെൻഷനലും നേടാം ഇതേ ഡൈമെൻഷനൽ ഫീച്ചറും ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ ഈ രൂപം പോയിന്റ് ക്ളൌഡ് ആണ് എനിക്ക് ഡാറ്റ വായിക്കാൻ കഴിയും കാരണം ഇത് സ്ട്രക്ചേഡ് ഫോമിനുള്ളതാണ് അതിനാൽ ഞാൻ മാനുവൽ ഓപ്പറേഷൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് എനിക്ക് CNC ഓപ്പറേഷനും ഉപയോഗിക്കാം CNC ഓപ്പറേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ജോയിസ്റ്റിക്ക് മാറ്റിവയ്ക്കുന്നു നമ്മൾ ജോയിസ്റ്റിക്ക് ഉപയോഗിക്കില്ല നമ്മൾ മെഷീനോട് കമാൻഡ് ചെയ്യും അതായത് ഓരോ 1 മില്ലീമീറ്ററിലും അല്ലെങ്കിൽ ഓരോ 2 മില്ലീമീറ്ററിലും അത് പോയിന്റുകൾ ലൊക്കേറ്റ് ചെയ്യും ഞാൻ അത് പ്ലെയിനിന് അടുത്ത് കൊണ്ടുവന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ നോമിനൽ പാത്ത് ഓട്ടോ മെഷർ ഓട്ടോ മെഷർ കർവ് 3 യുടെ ആരംഭ പോയിന്റ് ഇത് ഓട്ടോമാറ്റിക് മോഡ് ആണ് അതിനാൽ ആരംഭ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നു പരമാവധി സ്റ്റെപ്പ് 3 മില്ലീമീറ്ററാണ് സാന്ദ്രമായ മെഷ് അല്ലെങ്കിൽ സാന്ദ്രമായ പോയിന്റ് ക്ളൌഡ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഈ സ്റ്റെപ്പ് 3 മില്ലീമീറ്ററാണ് നമുക്ക് ഈ നീളം കുറയ്ക്കാൻ കഴിയും നമുക്ക് ഇത് 1 മില്ലീമീറ്റർ കുറഞ്ഞ നീളത്തിലേക്ക് ചുരുക്കാം ശരി അതെ ടിപ്പ് ഒരു സ്ഥാനത്തേക്ക് നീക്കുക അത് സ്കാനിന്റെ ആദ്യ പോയിന്റിൽ വ്യക്തമാണ് ഇപ്പോൾ ഓരോ 1 മില്ലീമീറ്ററിലും നമ്മൾ80 ക്ലിക്കുചെയ്യുന്നു ഓരോ അളവും ഈ പോയിന്റിൽ നിന്ന് ആദ്യത്തെ റഫറൻസ് പോയിന്റിൽ നിന്നും ആരംഭിച്ച പോയിന്റ് കണ്ടെത്താൻ തുടങ്ങുന്നു നമ്മൾ ഇവിടെ ജോയിസ്റ്റിക്ക് വയ്ക്കുന്നു അത് സ്വയം നീങ്ങുന്നു ഓരോ 1 മില്ലീമീറ്ററിലും ഇത് ഓരോ 1 മില്ലീമീറ്ററിലും മെഷർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഇവിടെ പോയിന്റുകൾ റെക്കോർഡുചെയ്യുന്നു പോയിന്റുകൾ ഇവിടെ ചേർക്കപെടുന്നുവെന്നു നിങ്ങൾക്കറിയാം ഈ ദിശയിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ അതിന്റെ പരിധി കവിയുന്നില്ലെങ്കിൽ ഇത് റെക്കോർഡിംഗ് തുടരും x ദിശ 500 ഇതിന് 500 മില്ലീമീറ്റർ നീക്കാൻ കഴിയും അതിനാൽ ഇതിന് 500 വരെ നീങ്ങാൻ കഴിയും കൂടാതെ ഈ വർക്ക് പീസ് ഇവിടെ പൂർത്തിയാകുന്നത് വരെ ഇത് ഇവിടെ ഒന്നും കണ്ടെത്തുകയില്ല ശരി അതിനാൽ ഇത് 1 മില്ലീമീറ്ററാണ് അതിനാൽ ഞാൻ ഇത് വീണ്ടും ചെയ്യാൻ ശ്രമിക്കാം അതിനാൽ അവസാനം നിങ്ങൾക്കറിയാം ഇപ്പോൾ അത് മറ്റൊരു ദിശയിലേക്ക് 90 ഡിഗ്രിയിലേക്കും മുമ്പത്തേതിലേക്കും നീങ്ങി ഇപ്പോൾ വീണ്ടും ഇവിടെ പോയിന്റുകൾ കണ്ടെത്തുന്നു അതിനാൽ ഇത് 13 ശതമാനം മാത്രമേ ജനറേറ്റ് ചെയ്തുള്ളൂ നമ്മൾ ഇവിടെ കാണിച്ചു ഇത് കൂടുതൽ ജനറേറ്റ് ചെയ്യപ്പെട്ടു ഞാൻ കരുതുന്നു ഏതാണ്ട് 30 പോയിന്റുകൾ ഇതിന് കാരണം ഈ പോയിന്റുകൾ ലൊക്കേറ്റ് ചെയ്യുന്നു ഓരോ 1 മില്ലീമീറ്റർ അകലത്തിലും പോയിന്റുകൾ ജനറേറ്റുചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ശരി ഇപ്രകാരമാണ് മെഷീന്റെ ഓട്ടോ മെഷേർഡ് CNC ബോർഡ് പ്രവർത്തിക്കുന്നത് നമ്മൾ ഫീച്ചറുകൾ ജനറേറ്റ് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ സ്ട്രക്ച്ചർ ജനറേറ്റ് ചെയ്തു ഇത് സ്ട്രക്ചേഡ് പോയിന്റ് ക്ളൌഡും ത്രികോണ മെഷും ആയിരുന്നു അടുത്ത സ്റ്റെപ്പ് അലൈൻമെന്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും ശരി ഈ ആകൃതികളുടെ അലൈൻമെന്റ് ചെയ്യുന്നത് മൊത്തത്തിൽ ഈ 3D ആകാരം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആണ് ശരി അതിനാൽ അത് ഒരു നിശ്ചിത ദൂരത്തിൽ ഒരു കർവ് ജനറേറ്റ് ചെയ്തു നമ്മൾ ജനറേറ്റുചെയ്ത ഈ ഉപരിതലത്തിൽ നിന്നും അകലെയുള്ള സ്ഥലത്ത് ഒരു കർവ് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹോം പൊസിഷൻ യഥാർത്ഥത്തിൽ നിർവ്വചിച്ചിട്ടില്ല അതിനാൽ ഇത് വീണ്ടും ചെയ്യാൻ ശ്രമിക്കാം അത് ഇവിടെ വന്നിരിക്കുന്നു നമ്മൾ A 0 B 0 എന്നിവ മാറ്റിയിട്ടില്ല A 0 B 0 എന്നിവ സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഒരു ആരംഭ പോയിന്റ് അളക്കുക നമ്മൾ A യെ 0 ആയും B യെ 0 ആയും മാറ്റി A 0 B 0 നമ്മൾ ഇത് വീണ്ടും അളക്കുന്നു ഇപ്പോൾ നമുക്ക് ദൂരം 2 മില്ലീമീറ്ററായി വെച്ചുകൊണ്ട് വീണ്ടും അളക്കാം നമ്മൾ ഇവിടെ ജോയിസ്റ്റിക്ക് വയ്ക്കുന്നു അത് ഇപ്പോൾ മെഷർ ചെയ്യുന്നു ഇപ്പോൾ ഗ്യാപ്പ് 2 മില്ലീമീറ്ററാണ് അതിനാൽ ഇപ്പോൾ മെഷീൻ CNC മോഡിൽ പ്രവർത്തിക്കുന്നു അതിനാൽ നമ്മുടെ സോഫ്റ്റ്വെയറും ഈ കോർഡിനേറ്റ് മെഷറിംഗ് മെഷീനും പ്രവർത്തിക്കുന്നത് ഇപ്രകാരമാണ് പോയിന്റുകൾ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോയിന്റുകൾ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 മില്ലീമീറ്റർ വീതം ഉള്ള 6 പോയിന്റുകൾ ജനറേറ്റ് ചെയ്യുന്നു എന്നിട്ട് ഓട്ടോ മെഷർ ചെയ്യുക വീണ്ടും നമുക്ക് ഇതുപോലെ മെഷർ ചെയ്തുകൊണ്ടിരിക്കാം അതിനാൽ നമ്മൾ കോ ഓർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് ഇപ്രകാരമാണ് ലബോറട്ടറിയിൽ നമ്മൾ കണ്ട കോർഡിനേറ്റ് മെഷറിംഗ് മെഷീന്റെ വളരെ നിസ്സാരമോ അടിസ്ഥാനപരമോ ആയ ഉപയോഗമാണിത് നമുക്ക് കർവുകളും മെഷർ ചെയ്യാൻ കഴിയും അജ്ഞാത കർവുകൾ അല്ലെങ്കിൽ അൺസ്ട്രക്ചേഡ് ഫീച്ചറുകൾ സമാനമായ നടപടിക്രമം പോയിന്റുകളുടെ ജനറേഷനുവേണ്ടി പിന്തുടരുന്നു ശരി CNC മോഡ് ഉപയോഗിച്ച് നമുക്ക് പോയിന്റുകൾ ജനറേറ്റ് ചെയ്യാൻ കഴിയും പോയിന്റ് ലോഡ് ജനറേറ്റ് ചെയ്യാൻ കഴിയും നമുക്ക് വിശകലനം നടത്തണമെങ്കിൽ നമുക്ക് അതിന്റെ ത്രികോണ മെഷും ലഭിക്കും പോയിന്റുകളിൽ നിന്ന് പോയിന്റ് ക്ളൌഡിൽ നിന്ന് നമുക്ക് രൂപം ഉണ്ടാക്കേണ്ടി വരുമ്പോൾ ത്രികോണ മെഷ് ആവശ്യമാണ് തുടർന്ന് നമ്മൾ മെഷ് ഒപ്റ്റിമൈസ് ചെയ്യുന്നു ശരി ത്രികോണത്തിന്റെ വലുപ്പം എത്രയാണ് ആവശ്യമുള്ളത് എന്നിട്ട് നമ്മൾ അവയെ അലൈൻ ചെയ്യുന്നു അന്തിമ രൂപം ലഭിക്കുന്നതിന് വേണ്ടി അവയെ അലൈൻ ചെയ്യുന്നു എന്നിട്ട് അവസാനം ഉൽപാദനത്തിന് വേണ്ടി നിർമ്മാതാവിന് വേണ്ടി എഞ്ചിനീയർമാർക്ക് വേണ്ടി ഡാറ്റ SGL ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും അതിനാൽ ഈ ഘട്ടത്തിൽ ഇതെല്ലാം 3D മെഷർമെന്റുകളിൽ ഉണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിന് നന്ദി അടുത്ത തവണ ഞങ്ങൾ നിങ്ങളെ വീണ്ടും കാണും